അതിനാൽ അതിർത്തി പോയിന്റുകളിൽ ദൃശ്യമാകുന്ന ഒരേയൊരു സങ്കീർണത ഇതാണ് നോഡ് 2 ൽ നിന്നുള്ള സംഭാവന 0 ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതുപോലെ ഇന്റീരിയർ നോഡുകളിൽ നിന്നുള്ള സംഭാവന 0 ശരിയാകുന്നത് നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് അവശേഷിക്കുന്നത് അവസാന ഘട്ടത്തിൽ നിന്നുള്ള ഈ സംഭാവന മാത്രമാണ് അതിനാൽ നമുക്ക് ഇവിടെയുള്ള ഈ സമവാക്യത്തിലേക്ക് മടങ്ങാം ആദ്യ ടേം രണ്ടാം ടേം വലത് വശം എനിക്ക് ഒന്ന് കൂടി തരാൻ പോകുന്നു ചില സ്ഥിരാങ്കങ്ങൾ ശരിയാണ് അതിനാൽ സമവാക്യ രൂപത്തിൽ ഞാനിത് എങ്ങനെ എഴുതും ഒരുപക്ഷേ എനിക്കിപ്പോൾ ഇവിടെ എഴുതാം അതിനാൽ ആദ്യത്തെ സമവാക്യം അത് എനിക്ക് കുറച്ച് നിബന്ധനകൾ നൽകി എനിക്ക് എന്തെങ്കിലും നിബന്ധനകളും നിബന്ധനകളും ഉണ്ടായിരുന്നോ അല്ല വലതുവശത്ത് എനിക്ക് സ്ഥിരമായ ഒരു പദം ഉണ്ടായിരുന്നോ അതാണ് എന്റെ ആദ്യത്തെ സമവാക്യം ശരി ഇനി നമുക്ക് ok ഉപയോഗിച്ച് ടെസ്റ്റിംഗ് നടത്താം അതിനാൽ വെയ്റ്റിംഗ് ഫംഗ്ഷൻ 2 എന്ന് പറയട്ടെ ഞങ്ങൾ വെയ്റ്റിംഗ് ഫംഗ്ഷൻ 1 ഉപയോഗിച്ച് പരീക്ഷിക്കണം ഇപ്പോൾ വെയ്റ്റിംഗ് ഫംഗ്ഷൻ 2 ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യണം അത് ഞങ്ങൾക്ക് പൊതുവായ ആശയം നൽകും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ആദ്യ ടേം നോക്കാം അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഈസ് ഈസ് ഈക്വെൽ മറ്റൊന് എൻഡ് പോയിന്റ്സ് ഓകെ അതിനാൽ മൈനസ് നമുക്ക് അത് ശരിയായി എഴുതാം അതിനാൽ ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ക്രമീകരിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ പൂജ്യമല്ലാത്തിടത്ത് താൽപ്പര്യമുള്ള ഡൊമെയ്ൻ എന്താണ് അതിനാൽ and ഇതും അങ്ങനെയാണ് w പ്രൈം ഈ സെഗ്മെന്റിൽ എന്തായിരിക്കും അതിനാൽ അത് പ്ലസ് ആകാൻ പോകുന്നു വിദ്യാർത്ഥി മൈനസ് മൈനസ് വലത് അതിനാൽ ഇത് രണ്ട് പദങ്ങളായി വിഭജിക്കും അതിനാൽ ഇതിൽ ഒരു അവിഭാജ്യ മൈനസ് ഉണ്ടായിരിക്കും ഇവിടെ ഏത് പദങ്ങൾ ദൃശ്യമാകും എന്നതാണ് ഡെറിവേറ്റീവ് ഇവിടെ ഏത് രണ്ട് പദങ്ങൾ ദൃശ്യമാകും നിങ്ങൾക്കുള്ള നിങ്ങളുടെ ആവിഷ്കാരമാണിത് വിദ്യാർത്ഥി യു യു വിദ്യാർത്ഥി ഇത് മുമ്പത്തേതുപോലെയാണെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ അതിനാൽ എനിക്ക് എന്ത് ലഭിക്കും വിദ്യാർത്ഥി മൈനസ് വിദ്യാർത്ഥി ഡെൽറ്റ ശരിയാണ് ഡെൽറ്റ പ്രകാരം ഇത് ആദ്യ ടേം ആണ് ക്ഷമിക്കണം മൈനസ് കാരണം രണ്ടാമത്തെ സെഗ്മെന്റിൽ സംയോജനം തുടരുന്നു ഇന്റഗ്രലിന്റെ ആദ്യ പദം മാത്രമാണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത് വിദ്യാർത്ഥി മൈനസ് 1 അത് ശരിയാണ് ഇപ്പോൾ എന്താണ് ദൃശ്യമാകുന്നത് വിദ്യാർത്ഥി മൈനസ് യു 2 k ഇനി നമുക്ക് അടുത്ത ടേം എടുക്കാം അതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വീണ്ടും എനിക്ക് ഇപ്പോൾ സംയോജനം നടത്തേണ്ടതുണ്ട് ഇത് ഞാൻ മുമ്പ് ഇവിടെ എഴുതിയതുപോലെയാണ് അത് തുടരും അതിനാൽ ഈ രണ്ട് നിബന്ധനകളും ശരിയായ ആദ്യ ടേമിന് മുമ്പുള്ളതുപോലെ ഇവിടെ നിന്ന് വരും കൂടാതെ സംയോജനത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പദവും ഇപ്പോൾ ഏത് പദം വരും ഇത് സെഗ്മെന്റ് 2 എലമെന്റ് 1 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആകൃതി ഫംഗ്ഷൻ 1 ആണ് ഞാൻ ഇപ്പോൾ എന്ത് വരും ഇത് 1 2 3 4 ആണ് അതിനാൽ ഇപ്പോൾ ഞാൻസെഗ്മെന്റിലാണ് അപ്പോൾ വരാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ശരിയാണ് ഇത് രണ്ടാമത്തെ ടേം ആണ് തുടർന്ന് ഈ മൂന്നാം ടേം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് w x u x അതിനാൽ ഇത് നോഡ് 2 മൈനസ് നോഡായിരിക്കും ക്ഷമിക്കണം അത് എന്തായിരിക്കും വിദ്യാർത്ഥി നോഡ് വിദ്യാർത്ഥി 3 ഉം 1 ഉം നോഡ് 3 ഉം 1 ഉം അതെ നോഡ് 1 മൈനസ് നോഡ് 3 പിഴ ഇത് എന്തായിരിക്കും നോഡ് 1 ലെ നോഡ് 3 ന്റെ മൂല്യം എന്താണ് എന്ന് നമുക്ക് പറയാം 0 വലത് ഈ ത്രികോണം ഈ പച്ച ത്രികോണം നോഡ് 1 ൽ നിന്ന് നോഡ് 2 ലേക്ക് ആരംഭിക്കുന്നു തുടർന്ന് നോഡ് 3 ൽ 0 ലേക്ക് പോകുന്നു അതിനാൽ രണ്ട് നോഡ് പോയിന്റുകളിലും അതിന്റെ മൂല്യം എന്താണ് വിദ്യാർത്ഥി 0 0 അങ്ങനെ വളരെ എളുപ്പമാണ് അതിനാൽ ഈ വലത് വശത്തെ പദം അവസാന ഘട്ടങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കാരണം ഇത് റദ്ദാക്കപ്പെടുന്നു ഇത് ടെസ്റ്റിംഗ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിന്റെ സമർത്ഥമായ തിരഞ്ഞെടുപ്പാണ് അതിനാൽ ഇപ്പോൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ രണ്ടാമത്തെ സമവാക്യം മാറുന്നു അതിനാൽ എല്ലാ വേരിയബിളുകൾക്കും എന്താണ് ഉള്ളതെന്ന് ഇവിടെ ഈ 1 ആം സമവാക്യം ശ്രദ്ധിക്കുക അവയെല്ലാം സ്ഥിരാങ്കങ്ങളാണ് അവയെല്ലാം x സംയോജിപ്പിക്കുന്നത് നിസ്സാരമാണ് വിദ്യാർത്ഥി ഹം കെ ശരിയുള്ള രണ്ടാമത്തെ കാര്യം ക്വാഡ്രാറ്റിക്സ് അതിനാൽ അതിന് എന്ത് വേരിയബിളുകൾ ഉണ്ടെന്ന് ക്വാഡ്രേച്ചർ ഉപയോഗിച്ച് ചെയ്യാം എന്തെങ്കിലും നെഗറ്റീവ് അവകാശം ഉണ്ടോ അതിനാൽ ഇവിടെയുള്ള ഈ രണ്ടാമത്തെ സമവാക്യം മാറുന്നു വിദ്യാർത്ഥി 2 1 അതിനാൽ കൃത്യമായി ഇനി നമുക്ക് പാറ്റേൺ 3 ആം സമവാക്യം നോക്കാം വിദ്യാർത്ഥി 0 അതിനാൽ ഇത് 0 പ്ലസ് ആയിരിക്കും വിദ്യാർത്ഥി 3 ഇപ്പോൾ അവസാന സമവാക്യത്തിൽ എന്റെ ഓവർ തിരഞ്ഞെടുക്കുമ്പോൾ വലതു വശം എൻഡ് പോയിന്റ് നോഡിൽ അതിന്റെ മൂല്യം 1 ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പൂജ്യമല്ലാത്ത സംഭാവന ലഭിക്കുന്നത് അതിനാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എനിക്ക് നൽകാൻ പോകുകയാണ് എനിക്ക് പൂജ്യമല്ലാത്ത ഒരു ബി ഉണ്ട് അതിനാൽ എനിക്ക് പൂജ്യമല്ലാത്തതും ശരിയും ലഭിക്കും അതിനാൽ ചുരുക്കത്തിൽ ഈ എഫ്ഇഎം ഒറ്റ മാനത്തിൽ ഞങ്ങൾ പരിഹരിക്കുന്ന രീതിയാണിത് അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വ്യക്തമാണ് അതിനാൽ ആരംഭ പോയിന്റായി ഓർക്കുക ഞങ്ങൾ അതിനെ ദുർബലമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തു ദുർബലമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം ആകാര പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന അജ്ഞാതത്തിന്റെ രൂപം ഞങ്ങൾ മാറ്റിസ്ഥാപിച്ചു എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ഞാൻ നന്നായി തിരഞ്ഞെടുത്തു എന്നതാണ് ഞാൻ ചെയ്ത ഒരേയൊരു ചെറിയ ബുദ്ധി അതിനാൽ എനിക്ക് വേരിയബിളുകളിൽ മതിയായ സമവാക്യങ്ങൾ ലഭിച്ചു അതിനാൽ എൻഡ്പോയിന്റ്സ് ഷേപ്പ് ഫംഗ്ഷനുകൾ ഞാൻ അതേപടി ഉപേക്ഷിച്ചു പിന്നെ പൊതുവായ നോഡ് ഉള്ളതെന്തും എനിക്കും ഈ ത്രികോണങ്ങൾക്കും നൽകിയ ആ ഷേപ്പ് ഫംഗ്ഷനുകൾ ഞാൻ സംയോജിപ്പിക്കുന്നു അതൊരു സങ്കൽപ്പമാണ് മറ്റൊന്ന് അതിർത്തി വ്യവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ഔട്ട്ഗോയിംഗ് എന്ന് കരുതപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഔട്ട്ഗോയിംഗ് ആയിരിക്കേണ്ടതുമായ ഒരു കാര്യത്തിന് മാത്രമേ റേഡിയേഷൻ അതിർത്തി അവസ്ഥ അർത്ഥമാക്കൂ വിദ്യാർത്ഥി സ്കാറ്റർ ഫീൽഡ് സ്കാറ്റർ ഫീൽഡ് കാരണം ഒരിടത്ത് നിന്ന് പ്രവേശിക്കുകയും മറ്റൊരിടത്ത് നിന്ന് പുറത്തുകടക്കുകയും ചെയ്യും അതുകൊണ്ട് അതിൻ്റെ ഒരു നിബന്ധനയും പ്രയോഗിക്കരുത് നമുക്ക് സ്വന്തം കാര്യം ചെയ്യാം ഞങ്ങൾ സ്കാറ്റർ ഫീൽഡിൽ അപേക്ഷിച്ചു ഈ സ്കാറ്റർ ഫീൽഡ് എങ്ങനെ ലഭിക്കും ശരിയാണ് അതാണ് ഇവിടെയുള്ള നിർണായകമായ ആശയം അതിനാൽ അത് എനിക്ക് അടിസ്ഥാനപരമായി ഒരു വ്യവസ്ഥ നൽകി അതാണ് ഞാൻ ആഗ്രഹിച്ചത് അതാണ് ഞാൻ ഇവിടെ പകരം വച്ചത് അത് എനിക്ക് പൂജ്യമല്ലാത്ത വലതു വശം നൽകുന്നു അതിനാൽ എല്ലാ സംഭവ ഫീൽഡ് പദങ്ങളും ഇവിടെ ദൃശ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിസ്സാരമായ ഒരു സംഭവ ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ ബി 0 ആണ് u എന്നത് 0 ആണ് അതിനാൽ അത് 1D FEM സമവാക്യത്തിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു Student വിദ്യാർത്ഥി അതിനാൽ ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് പകരം വിദ്യാർത്ഥി അപ്പോൾ നമുക്ക് എങ്ങനെ കഴിയും നിങ്ങൾക്ക് പൾസ് ബേസ് ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അവ ഞങ്ങളുടെ അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നില്ല അതെ ആദ്യത്തെ സമവാക്യം വിദ്യാർത്ഥി രണ്ടാമൻ രണ്ടാമത്തേത് ക്ഷമിക്കണം വിദ്യാർത്ഥി രണ്ടാമത്തേത് ഒപ്പം അടുത്തതും അടുത്തതും ഒറ്റയ്ക്കാണ് എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് ന്റെ ഡൊമെയ്ൻ കാരണമാണ് 2 ഘടകങ്ങളിൽ കൂടുതൽ നിലവിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ രണ്ട് ഘടകങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നത് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വ്യായാമം തിരികെ പോയി 6 ആം ആകൃതിയിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിക്കാനും ഇത് നേടാനും ശ്രമിക്കുക എന്നതാണ് നിങ്ങൾക്ക് 6 സമവാക്യങ്ങൾ ലഭിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ അവ എങ്ങനെയാണ് 4 സമവാക്യങ്ങൾ മാത്രമാണെന്ന് കാണാൻ ശ്രമിക്കുക അതിനാൽ വളരെ ലളിതമായ വ്യായാമം ഇത് നിങ്ങൾക്ക് കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത നൽകും ശരി ഞാൻ നിങ്ങൾക്ക് നേരിട്ടുള്ള കുറുക്കുവഴി തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് വോലാക്കിസിന്റെ ഈ പുസ്തകത്തിന്റെ 3 ാം അധ്യായമായ റഫറൻസ് പുസ്തകം അവർ കടന്നുപോകുന്ന കുറുക്കുവഴികൾ ചെയ്യാതെ ഒരു വലിയ സമവാക്യ സംവിധാനം നേടുക തുടർന്ന് അത് കുറയ്ക്കാൻ കുറച്ച് ബീജഗണിതം ചെയ്യുക ഇത് പരിഹരിക്കുന്നതിനുള്ള സങ്കീർണ്ണത എന്താണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ത്രികോണാകൃതിയിലാണ് സംഭവിക്കുന്നത് പൊതുവേ ഇത് സമവാക്യങ്ങളുടെ ഒരു വിരളമായ സംവിധാനമാണ് അതിനാൽ ഈ സങ്കീർണ്ണത പരിഹരിക്കാൻ നിങ്ങൾ LU വിഘടനം നടത്തുകയാണെങ്കിൽ ക്രമം മാത്രം ഓ ഏത് ചിഹ്നമാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ഉപയോഗിക്കേണ്ടതില്ല a b c d d d ഉപയോഗിച്ചിട്ടില്ല d d എന്നത് ഓഫ് ഡയഗണൽ മൂലകങ്ങളുടെ എണ്ണമാണ് ശരി അതിനാൽ ലീനിയർ ബീജഗണിതം ചെയ്തവർ LU വിഘടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് d എണ്ണം മാത്രമേ ഉള്ളൂ എന്നതിനാൽ നിങ്ങൾ 0 കൾ വളരെ വേഗത്തിൽ d പ്രാവശ്യം മാത്രം ലഭിക്കാൻ തുടങ്ങുമ്പോൾ പല തവണ വരി എലിമിനേഷനുകൾ ചെയ്യേണ്ടതില്ലെന്ന് അവർക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് അതിന്റെ ഉത്തരവുകൾ സാധാരണഗതിയിൽ d എന്നത് വളരെ ചെറുതാണ് d എന്നത് 2 3 ആണ് 1000 ഉം 1000 ഉം ആയ n മായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനാൽ എഴുതിയിരിക്കുന്ന ഈ ക്രമം എവിടെയും നിങ്ങൾ കണ്ടെത്തുകയില്ല നിങ്ങൾ അത് ഇതുപോലെ മാത്രമേ കണ്ടെത്തൂ വിദ്യാർത്ഥി ഓർഡർ എൻ ഓർഡർ n വലത് അതിനാൽ ഇത് വേഗമേറിയ ക്രമമായ MoM മായി ഇത് താരതമ്യം ചെയ്യുക